വെക്ടർ കാൽക്യൂലസിന്റെഅവലോകനമായ കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നെറ്റിക്സിന്റെആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരി അപ്പൊ നമ്മൾ ഈ കോഴ്സിനെ പറ്റി മനസിലാക്കിയത് പോലെ തന്നെ ഇവിടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം വെക്ടർ കാൽക്യൂലസിന്റെ ഭാഷയിൽ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം ആയി വേണ്ടത് ഇലക്ട്രോമഗ്നറ്റിക്സിനെ കുറിച്ചുള്ള കുറച്ചു അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതാണ് വെക്ടർ കാൽക്യൂലസ് എന്നത് വിശാലമായ വിഷയമാണ് എന്നാൽ നമ്മൾ അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക്സിനെ സംബന്ധിക്കുന്ന വളരെ അത്യാവശ്യം ആയ കാര്യങ്ങൾ ആണ് പഠിക്കാൻ പോവുന്നത് അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ ആണ് നമ്മൾ ഈ മോഡ്യുളിൽ പഠിക്കാൻ പോവുന്നത് നമുക്ക് ആദ്യം ചെയിൻ റൂൾ ഓഫ് ഡിഫറെൻസിയേഷൻ Chain Rule Of Differentiation ഗ്രേഡിയന്റിന്റെ ആശയം അവതരിപ്പിക്കുക ഗ്രേഡിയന്റ് വ്യതിയാനം ചുരുൾഎന്നിവ കണ്ടെത്തുന്ന ഏറ്റവും ജനപ്രിയമായ മൂന്ന് ഓപ്പറേറ്റർമാരിലേക്ക് നീങ്ങുക എന്നിവയെ പറ്റി നോക്കാം വെക്റ്റർ കാൽക്കുലസിൽ വളരെ പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങളുണ്ട് അതിനുശേഷം ഈ മേഖലയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സാങ്കേതികതകളും പോലുള്ള ചില അന്തിമഫലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതിനാൽ ചെയിൻ റൂളിൽ നിന്ന് ആരംഭിക്കുമ്പോൾ നമുക്ക് ആദ്യം മുതൽ ആരംഭിക്കാം നമുക്ക് സ്കെയിലർ പ്രവർത്തനം പരിഗണിക്കാം സ്കേലാർ ഫംഗ്ഷൻഅത് മൂന്ന് വേരിയബിളുകളാണെന്ന് നമുക്ക് പറയാം ഇത് ഏത് വേരിയബിളുകളുടെയും ആകാം പക്ഷേ നമ്മൾ മൂന്നിനൊപ്പം നിൽക്കും കാരണം ഒരു ത്രിമാന ഇടം പോലും ദൃശ്യവൽക്കരിക്കാൻ എളുപ്പമാണ് അതിനാൽ ലളിതമായ എന്തെങ്കിലും ഉദാഹരണമായിരിക്കാം ഇവിടെ ഒരു ചാർജ് പ്ലസ് q ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നു ഇവിടെ കുറച്ച് ദൂരമുണ്ട് ഉറവിടം ഞാൻ എവിടെയാണെന്ന് ബന്ധിപ്പിക്കുന്ന ഒരു വെക്റ്റർ ആർ ഉണ്ട് ഇവിടെ ഈ നിരീക്ഷകൻ റെക്കോർഡുചെയ്യാം ഇലക്ട്രോസ്റ്റാറ്റിക് സാധ്യതകൾ ശരിയാണെന്ന് പറയട്ടെ ഇനി ഇവിടെ നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ളത് പോലെ മൈനസ് എന്ന ലളിതമായ പദപ്രയോഗത്തിലൂടെയാണ് സാധ്യതകൾ നൽകുന്നത് ഇവിടെ |r| എന്നത് ൻറെ വർഗ മൂല്യമാണ് അതിനാൽ നമുക്കിവിടെ xyz എന്നീ വേരിയബിളുകളുടെ ഫങ്ക്ഷൻ ആയി f എന്ന ഫങ്ക്ഷൻ ഉണ്ട് ഇപ്പോൾ ഈ നിരീക്ഷകൻ ചില ദിശകളിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ ദിശ ഏകപക്ഷീയമായിരിക്കുമെന്നും സാധ്യത എങ്ങനെ മാറുമെന്ന് അറിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ് ഈ ഡെൽറ്റ f നിരീക്ഷകന്റെ ദിശയിൽ ഏകപക്ഷീയമായ മാറ്റം ഉണ്ടെങ്കിൽ ശരിയല്ലേ അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് കൃത്യമായി പറയാൻ x ൽ നിന്ന് മാറുക എന്ന് പറയട്ടെ ഇൽ നിന്നും ലേക്ക് ഇതുപോലെ y യിലും മാറ്റം വരുന്നു y ഇൽ നിന്നും ലേക്ക് z ആയി മാറുന്നു അതിനാൽ ഇത് ചെയിൻ റൂൾ എന്ന പേരിൽ നമ്മൾ ഹൈസ്കൂളുകളിൽ പഠിച്ച കാൽക്കുലസിന്റെ ഭാഗമായ ഒന്നാണ് അതിനാൽ സംയോജിത തരം വേരിയബിളുകളിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു ഫംഗ്ഷന്റെ മൊത്തം മാറ്റം എന്താണെന്ന് ചെയിൻ റൂൾ നമ്മോട് പറയുന്നു അതിനാൽ y ലെ മാറ്റവും z വലതുവശത്തെ മാറ്റവും മൂലം x ൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു കൂട്ടം ഈ df നൽകും നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ചെയിൻ റൂൾ പരിചിതമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇവ ഭാഗിക ഡെറിവേറ്റീവുകളാണെന്നകാര്യം ശ്രദ്ധിക്കുക കാരണം പ്രവർത്തനം മൂന്ന് വേരിയബിളുകളെയും ആശ്രയിച്ചിരിക്കുന്നു വേരിയബിളുകളിലൊന്നിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡെറിവേറ്റീവ് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ പ്രയോഗം നോക്കുമ്പോൾ ഇത് ശരിയാണെങ്കിലും ഒരേ കാര്യം നോക്കാൻ കൂടുതൽ സൌകര്യപ്രദമായ ഒരു മാർഗമുണ്ട് അതിനാൽ ഞാൻ ഈ പദപ്രയോഗം നോക്കുകയാണെങ്കിൽ രണ്ട് വെക്റ്ററുകൾക്കിടയിലുള്ള ഡോട്ട് ഉൽപ്പന്നമായി എനിക്ക് ഇത് ചിന്തിക്കാം അതിനാൽ രണ്ട് വെക്റ്ററുകൾക്ക് ഇടയിലുള്ള ഡോട്ട് ഉല്പന്നം v ഡോട്ട് u എന്ന് പറയാം ഉദാഹരണത്തിന് v ഈ വെക്റ്റർ ആകാം u ഈ വെക്റ്റർ ആകാം അതിനാൽ എനിക്ക് ലഭിച്ചത് ഈ മാറ്റമാണ് രണ്ട് വെക്റ്ററുകളുടെ ഡോട്ട് പ്രോഡക്റ്റാണ് ഇവിടെയുള്ള ഈ വെക്റ്റർ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് അതിനാൽ ഇത് f ന്റെ ഗ്രേഡിയന്റ് ആയി നിർവചിക്കപ്പെടുന്നു ഇത് ഒരു വെക്റ്ററാണ് അതിനാൽ ഇതിന് ഇവിടെ മൂന്ന് ഘടകങ്ങളുണ്ട് അതിനുള്ള ഹ്രസ്വചിഹ്നമാണ് ഇത് ഇവിടെ സ്ഥാനചലനം ശരിയാണ് അതിനാൽ ഇത് നിരീക്ഷകന്റെ സ്ഥാനചലനമാണ് എനിക്ക് ഇത് dl പോലെ എഴുതാം സാധാരണയായി ഈ കോഴ്സിൽ ഞാൻ f ന്റെ ഗ്രേഡിയന്റിന് മുകളിൽ ഒരു അമ്പടയാളം ഇടുകയില്ല പക്ഷേ ഇത് ഒരു വെക്റ്ററാണെന്ന് മനസ്സിലാക്കാം മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു ഹ്രസ്വചിഹ്നമാണ് അതിനാൽ ഞാൻ ഇത് മൂന്ന് ഘടകങ്ങളുള്ള ബ്രാക്കറ്റുകളിൽ എഴുതിയിട്ടുണ്ട് അതായത് ഇത് മൂന്ന് ഘടകങ്ങളുള്ള ഒരു വെക്റ്ററാണ് F ന്റെ ഈ ഗ്രേഡിയന്റ് x ഹാറ്റ് y ഹാറ്റ് z ഹാറ്റ് എന്നിവക്ക് തുല്യമായതുപോലെ എനിക്ക് ഇത് എഴുതാനും കഴിയും ഇത് എഴുതാൻ കൂടുതൽ സമയം എടുക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഞാൻ ഇത് കൂടുതൽ തവണ ഉപയോഗിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റിൽ കോമയുള്ള എന്തെങ്കിലും കാണുമ്പോൾ അത് മനസ്സിലാകും ഞാൻ സംസാരിക്കുന്ന ഒരു വെക്റ്ററും അതിന്റെ ഘടകങ്ങളും അതിനാൽ ഇത് ഒരു ഗ്രേഡിയന്റ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ സൌകര്യപ്രദമായ വഴി നൽകിയ ചെയിൻ നിയമത്തെക്കുറിച്ചാണ് അതിനാൽ ഇതാണ് ഗ്രേഡിയന്റ് അടുത്തതായി ഇപ്പോൾ നമ്മൾ നിർവ്വചിച്ച ഈ ഗ്രേഡിയന്റിനൊപ്പം പ്രവർത്തിക്കാൻ ശ്രമിക്കാം അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ നിന്ന് ഞങ്ങൾ ഈ മൊത്തം ഡെറിവേറ്റീവ് df കണക്കുകൂട്ടുകയും ഇവിടെയുള്ള ഗ്രേഡിയന്റിനും ഇവിടത്തെ സ്ഥാനചലന വെക്റ്ററിനും ഇടയിലുള്ള ഒരു ഡോട്ട് ഉൽപ്പന്നമായി എഴുതുകയും ചെയ്തു ഇപ്പോൾ നിങ്ങൾ ഒരു ഡിഫറൻഷ്യൽ എലമെന്റ് എഴുതിക്കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം മൊത്തം മാറ്റം എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് ചില പോയിന്റുകളിൽ നിന്ന് a വെക്റ്ററിൽ നിന്ന് b വെക്റ്ററിലേക്ക് പോകുകയാണ്എന്ന് കരുതുക ഉദാഹരണത്തിന് എനിക്ക് ഇതുപോലെ പോകാം അതിനാൽ ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കുന്ന അവിഭാജ്യഘടകമാണിത് ഉദാഹരണത്തിന് ഈ df ഒരു ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഒരു ചെറിയ അളവിലുള്ള ജോലിയെ പ്രതിനിധീകരിക്കുന്നു അങ്ങനെ ചെയ്ത മൊത്തം ജോലികൾ കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പാതയിൽ സംയോജിപ്പിക്കേണ്ടതുണ്ട് സംയോജനത്തിന്റെ പരിധികൾ a b എന്നിവ മാത്രമാണെന്നത് ശ്രദ്ധിക്കുക റൂട്ട് വ്യക്തമാക്കിയിട്ടില്ല മനസിലായോ അതിനാൽ എനിക്ക് സാധ്യമായ ഒരേയൊരു റൂട്ട് ഇത് മാത്രമല്ല ഉദാഹരണത്തിന് ഇതുപോലെ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും സങ്കീർണ്ണമായ റൂട്ട് എനിക്ക് ഇതുപോലെ പോകാൻ കഴിയും അത് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ലാത്തതിനാൽ അത് പ്രശ്നമല്ല അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഈ d f ശരിയായി സംയോജിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിനാൽ ഞാൻ ശരിയായി എഴുതുകയാണെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അറിയില്ലെങ്കിൽ ഈ രീതിയിൽ fb മൈനസ് fa ശരിയായി ഫംഗ്ഷന്റെ മൂല്യമായി നിങ്ങൾ ഇത് എഴുതുക എന്നാൽ ഇപ്പോൾ ഗ്രേഡിയന്റ് അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ d f നുള്ള ഒരു നല്ല ഐഡന്റിറ്റിയും നമുക്കുണ്ട് അതിനാൽ നമ്മൾ എത്തിച്ചേരുന്ന ബന്ധം ഇതാണ് തീർച്ചയായും ശ്രദ്ധേയമായ കാര്യം ഇവിടെയുള്ള ഈ പ്രയോഗം പാത സ്വതന്ത്രമാണ് എന്നതാണ് ഞാൻ ഏത് പാതയാണ് സ്വീകരിച്ചത് എന്നത് പ്രശ്നമല്ല കാരണം ഇത് ഇവിടെ പൂർണ്ണമായ വ്യത്യാസമാണ് ഫലം അവസാന പോയിന്റിനെയും പ്രാരംഭ പോയിന്റിനെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇതിന്റെ വളരെ നേരായ സമാന്തരഫലം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും ഞാൻ ഒരു പോയിന്റിൽ നിന്ന് അതേ പോയിന്റിലേക്ക് മടങ്ങുകയാണെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫൈനലും ആരംഭ പോയിന്റും ഒന്നുതന്നെയാണ് അടുത്ത പാതകളിലെ അവിഭാജ്യഘടകമാണ് ഇത് അതിനാൽ ഞാൻ ഇവിടെ ഒരു സമഗ്ര ചിഹ്നം ഇട്ടാൽ അത് അർത്ഥമാക്കുന്നത് ഇത് ഒരു അടഞ്ഞ പാതയിൽ ഒരു അവിഭാജ്യമാണ് എന്നാണ് ആരംഭ പോയിന്റ് പ്രാരംഭ പോയിന്റ് നിങ്ങളിൽ ചിലർ അത്തരം പ്രയോഗങ്ങൾ നേരത്തേ നേരിട്ടിട്ടുണ്ടാകാം അതിനാൽ ഇത്തരത്തിലുള്ള ശക്തികൾ ഗ്രേഡ് ഫൈതരം ശക്തികളാണെങ്കിൽ നമ്മൾ ഇതിനെ യാഥാസ്ഥിതിക ശക്തി എന്ന് വിളിക്കുന്നു ok ഉദാഹരണത്തിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു യാഥാസ്ഥിതിക മേഖലയാണെന്ന് നമുക്കറിയാം അതിനാൽ അത് ഒരു അടുത്ത പാതയിലൂടെ പ്രവർത്തിക്കുന്നില്ല എല്ലാ ശക്തികളും യാഥാസ്ഥിതികമല്ല അതിനാൽ ഇത് ഒരു പ്രത്യേക കേസാണ് അതിനാൽ ഇപ്പോൾ ഗ്രേഡിയന്റിനൊപ്പം എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നിങ്ങൾക്ക് കുറച്ച് ധാരണ ലഭിച്ചു